നമസ്തേ മുമ്പത്തെ മൊഡ്യൂളുകളിൽ ഫിനാൻഷ്യൽ സ്റ്റെമെന്റ്സ്നെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് തുടർന്ന് കോർപ്പറേറ്റ് ഭരണം അക്കൌണ്ടിങ്ങിന്റെ പരിണാമം പോലുള്ള വിവിധ ആശയപരമായ വശങ്ങൾ ചർച്ചചെയ്തു ഇന്ന് നമ്മൾ അക്കൌണ്ടിങ്ങിന്റെ ആദ്യ ഘട്ടത്തിലേക്ക് മടങ്ങാൻ പോകുന്നു അക്കൌണ്ടിംഗിന് മൂന്ന് ഘട്ടങ്ങളുണ്ടെന്ന് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഒന്ന് ഇടപാടുകളുടെ റെക്കോർഡിങ് രണ്ട് സംഗ്രഹിക്കൽ മൂന്ന് ഫിനാൻഷ്യൽ സ്റ്റെമെന്റ്സ് തയ്യാറാക്കൽ എന്നിവയാണ് സാധാരണയായി വിദ്യാർത്ഥികളെ ആദ്യം റെക്കോർഡിംഗിനെക്കുറിച്ച് പഠിപ്പിക്കുകയും പിന്നീട് അവർ ഫിനാൻഷ്യൽ സ്റ്റെമെന്റ്സ്ലേക്ക് പോകുകയും ചെയ്യുന്നു എന്നാൽ നമ്മൾ ബാലൻസ് ഷീറ്റ് എന്താണെന്ന് ആദ്യം മനസിലാക്കി പി എൽ പിന്നെ പണമൊഴുക്ക് അതിന്റെ റെക്കോർഡിംഗ് ഭാഗം എന്താണെന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നു ഈ ശ്രേണി മാറ്റുന്നതിന്റെ പ്രധാന ഉദ്ദേശ്യം ഈ കോഴ്സ് പ്രധാനമായും റെക്കോർഡിംഗിൽ താൽപ്പര്യമില്ലാത്ത എഞ്ചിനീയർമാരെയോ മാനേജുമെന്റ് വിദ്യാർത്ഥികളെയോ പോലുള്ള അക്കൌണ്ടിംഗ് ഇതര വിദ്യാർത്ഥികൾ സ്റ്റെമെന്റ്സ് വായിക്കാനും വിശകലനം ചെയ്യാനും കൂടുതൽ താല്പര്യം കാണിക്കുന്നു അതിനാൽ ബാലൻസ് ഷീറ്റ് പി എൽ പണമൊഴുക്ക് എന്നിവ മനസിലാക്കാൻ ശ്രമിച്ചു ഇടപാടുകൾ എന്താണെന്നും അവയുടെ സംഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ പി എൽ ബാലൻസ് ഷീറ്റ് എന്നിവ ഉണ്ടാക്കിയതായും ചർച്ച ചെയ്യും ഇത് ജേണൽ എൻട്രികൾ അല്ലെങ്കിൽ ലെഡ്ജർ എൻട്രികൾ എന്നറിയപ്പെടുന്നു നമ്മൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകില്ല ജേണൽ എന്താണെന്നും ലെഡ്ജർ എന്താണെന്നും ഒരു അവലോകനം ഞാൻ നൽകാം ഈ മൊഡ്യൂളിന്റെ അടുത്ത പിപിടിയിൽ അടിസ്ഥാന പി എൽ ബാലൻസ് ഷീറ്റ് എന്നിവ എങ്ങനെ തയ്യാറാക്കുന്നുവെന്ന് നമ്മൾ കാണും അടുത്ത സെഷനുകളിൽ കോർപ്പറേറ്റ് പി എൽ ബാലൻസ് ഷീറ്റ് എന്നിവ തയ്യാറാക്കുന്നതിനെക്കുറിച്ചും സംസാരിക്കാം ആദ്യം സാമ്പത്തിക ഇടപാടുകളുടെ റെക്കോർഡിംഗിൽ ആരംഭിക്കാം അതിനാൽ ജേണൽ ലെഡ്ജർ സബ്സിഡിയറി പുസ്തകങ്ങൾ എന്നിവയെക്കുറിച്ച് നമുക്കു ചർച്ച ചെയ്യാം ഇവ അക്കൌണ്ടുകളുടെ പ്രധാന പുസ്തകങ്ങളാണ് ഇവ ഫൈനൽ അക്കൌണ്ടുകളല്ല എന്നാൽ ഇവിടെ നിന്ന് റെക്കോർഡിംഗ് ആരംഭിക്കുന്നു ആദ്യത്തേത് ജേണലാണ് ഇതിനെ ഒറിജിനൽ എൻട്രിയുടെ പുസ്തകം എന്ന് വിളിക്കുന്നു കാരണം എല്ലാ ഇടപാടുകളും ആദ്യം ജേണലിൽ രേഖപ്പെടുത്തുകയും അതിന്റെ ഫലങ്ങൾ ജേണലിൽ തീരുമാനിക്കുകയും ചെയ്യുന്നു ഇടപാടിന്റെ റെക്കോർഡിംഗിനെ എൻട്രികളുടെ ജേണലൈസിംഗ് എന്ന് വിളിക്കുന്നു എൻട്രികൾ സാധാരണയായി കാലക്രമത്തിൽ രേഖപ്പെടുത്തുന്നു പണ്ട് കാലത്തു ആളുകൾ യഥാർത്ഥത്തിൽ ജേണൽ എൻട്രികൾ എഴുതുന്ന ഫിസിക്കൽ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ മിക്ക അക്കൌണ്ടിങ്ങും കമ്പ്യൂട്ടർവത്കരിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ ജേണൽ എൻട്രികൾ സിസ്റ്റത്തിനുള്ളിൽ സംഭവിക്കുന്നു സിസ്റ്റം ലെഡ്ജറുകൾ സൃഷ്ടിക്കുകയും കമ്പ്യൂട്ടർ സിസ്റ്റത്തിനുള്ളിൽ ഫൈനൽ അക്കൌണ്ടുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു പക്ഷേ ജേണൽ എൻട്രികളുടെ കൃത്യത കുറയുന്നില്ല അത് വർദ്ധിച്ചു ജേണൽ എൻട്രിയിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അത് ലെഡ്ജറിൽ പ്രതിഫലിക്കുകയും അത് ഫൈനൽ അക്കൌണ്ടിൽ പ്രതിഫലിക്കുകയും ചെയ്യും അതിനാൽ ഒന്നുകിൽ എൻട്രയിലെ തുക അല്ലെങ്കിൽ എൻട്രിയെക്കുറിച്ചുള്ള ആശയപരമായ ഒരു തെറ്റ് അന്തിമ ഫൈനൽ അക്കൌണ്ടുകളെ പൂർണ്ണമായും വളച്ചൊടിക്കാൻ പോകുന്നു അതിനാൽ ജേണൽ എൻട്രികൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ലെന്ന കാര്യം ഓർമ്മിക്കുക അന്ന് പുസ്തകങ്ങളിൽ ആയിരുന്നെങ്കിൽ ഇന്ന് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണെന്ന് മാത്രമേ വ്യത്യാസം ഉള്ളു ഈ എൻട്രികളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ് ഇപ്പോൾ പരമ്പരാഗത ജേണലിന്റെ ഒരു മാതൃകയാണിത് ഇവിടെ നിങ്ങൾ തീയതി പാർട്ടിക്കലർ ലെഡ്ജർ ഫോളിയോ ഡെബിറ്റ് തുക ക്രെഡിറ്റ് തുക എന്നിവ എഴുതുന്നു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിൽ പോലും സമാനമായ ഒരു എൻട്രി നൽകേണ്ടതുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചത് ലളിതമായ ഇടപാടുകളുടെ പട്ടികയും ആ ഇടപാടുകളുടെ എൻട്രികളും നൽകുക എന്നതാണ് അതിനാൽ ഒരു പ്രത്യേക ഇടപാടിനായി ഒരു എൻട്രി എങ്ങനെ എഴുതുന്നു എന്ന് മനസിലാക്കാം അതിനാൽ 5000 രൂപയ്ക്ക് സാധനങ്ങൾ വിറ്റു 3000 രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു ഇപ്പോൾ നിങ്ങൾ ഈ രണ്ട് ലളിതമായ എൻട്രികൾ എടുക്കുകയാണെങ്കിൽ അവർക്കുള്ള ജേണൽ എൻട്രികൾ ഇതുപോലെയാണ് ചരക്കുകൾ പണത്തിനായി വിൽക്കുന്നത് അതിനാൽ നമുക് കൂടുതൽ പണം ലഭിക്കുന്നു അതിനാലാണ് ക്യാഷ് അക്കൌണ്ട് ഡെബിറ്റ് ചെയ്യപ്പെടുകയും നമ്മുടെ സെയിൽസ് വർദ്ധിക്കുകയും ചെയ്യുന്നത് അതിനാൽ സെയിൽസ് അക്കൌണ്ടിന് ക്രെഡിറ്റ് ലഭിക്കുന്നു പണം ഒരു അസറ്റാണെന്ന കാര്യം ഓർമ്മിക്കുക അതിനാൽ ഡെബിറ്റ് ചെയ്യുന്നതിലൂടെ പണം വർധിക്കുന്നു വിൽപ്പന ഒരു വരുമാനമാണ് അതിനാൽ ക്രെഡിറ്റ് ചെയ്യുന്നതിലൂടെ വിൽപ്പന വർദ്ധിക്കുന്നു അതിനാൽ ക്യാഷ് അക്കൌണ്ട് ടു സെയിൽസ് അക്കൌണ്ട് ഇങ്ങനെയാണ് എൻട്രി ക്യാഷിലെ ഡെബിറ്റ് തുക 5000 സെയിൽസ് ക്രെഡിറ്റ് തുക 5000 ഓരോ എൻട്രിക്കും മൊത്തം ഡെബിറ്റും ക്രെഡിറ്റും പൊരുത്തപ്പെടേണ്ടത് ആവശ്യമാണ് തുടർന്ന് അവസാന ബാലൻസ് ഷീറ്റ് മാത്രം കണക്കാക്കും വാണിജ്യമോ അത്തരം തരത്തിലുള്ള അക്കൌണ്ടിംഗ് പശ്ചാത്തലമോ ഇല്ലാത്തവർക്ക് ഇത് വളരെ പുതിയതായിരിക്കാം പക്ഷേ ഇത് ഭാവിയിൽ ചെയ്യുന്ന വിവിധ എൻട്രികളുടെയോ വിവിധ അക്കൌ ണ്ടിംഗിന്റെയോ മറ്റെല്ലാ എൻട്രിയുടെയും അടിസ്ഥാനമായി മാറുന്നു അടുത്ത എൻട്രി ക്യാഷ് ഡെപ്പോസിറ്റ് ആയിരുന്നു ബാങ്കിൽ അതിനാൽ ഇവിടെ ചെയ്തത് ഓർക്കുക ബാങ്ക് ബാലൻസ് വർദ്ധിക്കുകയും ക്യാഷ് ബാലൻസ് കുറയുകയും ചെയ്യുന്നു അതിനാൽ ബാങ്ക് അക്കൌണ്ട് ഡെബിറ്റ് 3000 ടു ക്യാഷ് അക്കൌണ്ട് 3000 അതിനർത്ഥം ക്യാഷ് അക്കൌണ്ടിന് 3000 ക്രെഡിറ്റ് ചെയ്യപ്പെടും ശ്രദ്ദിക്കുക ഇവിടെ തീയതി എഴുതിയിട്ടുണ്ട് നമ്മുക് നൂറു കണക്കിന് ഇടപാടുകൾ ഇത് പോലെ എഴുതുകയും അവയ്ക്കു ജേർണൽ എൻട്രി എഴുതാനും കഴിയും എന്നാൽ ആദ്യം ഞാൻ പറഞ്ഞത് പോലെ നമ്മൾ ഒത്തിരി ആഴത്തിൽ ഇതിലേക്ക് കടക്കുന്നില്ല ഇത് ഒരു ജേണൽ എന്താണെന്ന് നിങ്ങളെ മനസിലാക്കുന്നതിന് വേണ്ടിയാണ് അടുത്തത് ലെഡ്ജറാണ് ഇപ്പോൾ ജേണലിൽ നിന്ന് എൻട്രികൾ തരംതിരിക്കുകയും ഗ്രൂപ്പുചെയ്യുകയും ചെയ്യുന്നു മാത്രമല്ല അവ ഒരു പ്രത്യേക അക്കൌ ണ്ടിനു കീഴിൽ രേഖപെടുത്തുന്നു അവ ലെഡ്ജർ എന്നറിയപ്പെടുന്നു പണ്ട് കാലങ്ങളിൽ ലെഡ്ജറുകൾ എഴുതപ്പെട്ടിരുന്നു അവയെ എൻട്രികളുടെ പ്രിൻസിപ്പിൽ പുസ്തകങ്ങളായി വിളിച്ചിരുന്നു ജേണൽ ഒരു പ്രാഥമിക പുസ്തകമാണ് അവിടെ നിന്ന് ആദ്യം എൻട്രികൾ ലെഡ്ജറിലേക്ക് മാറ്റുകയും ലെഡ്ജർ ഒരു പ്രധാന പുസ്തകമാണ് അതിനാലാണ് ഇതിനെ വിളിക്കുന്നത് അക്കൌണ്ടുകളുടെ ഒരു തത്വ പുസ്തകം ആയി കരുതുന്നത് ഇത് ലെഡ്ജറിന്റെ ഒരു മാതൃകയാണ് ഈ വശം ഡെബിറ്റിനുള്ളതാണെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഈ വശം ക്രെഡിറ്റിനാണ് തീയതി പാർട്ടിക്കലാർസ് ജെഎഫ് ജെഎഫ് ഒരു ജേണൽ ഫോളിയോ ആണ് അതേ പോലെ തീയതി പാർട്ടിക്കലാർസ് ജെഎഫും തുകയും ഡെബിറ്റിനായി D r ക്രെഡിറ്റിനായി C r എബിസി അക്കൌണ്ട് ഒരു പ്രത്യേക അക്കൌണ്ടിന്റെ തലക്കെട്ടാണ് അതിനാൽ ഇത് ലഭിക്കുന്നതിന് രണ്ട് വശങ്ങളുണ്ട് ഓരോ അക്കൌണ്ടിനും ലെഡ്ജർ പുസ്തകത്തിൽ ഒരു പ്രത്യേക ലെഡ്ജർ അക്കൌണ്ട് തുറക്കേണ്ടതുണ്ട് സാധാരണയായി ഡെബിറ്റ് ക്രെഡിറ്റ് വശങ്ങളിൽ എഴുതുന്നു ഇപ്പോൾ ഒരു ലളിതമായ കേസ് നോക്കാം അതുവഴി തന്നിരിക്കുന്ന ഇടപാടുകൾക്കായി ലെഡ്ജർ അക്കൌണ്ടുകൾ തയ്യാറാക്കാം റാം ആൻഡ് കമ്പനിക്കു വേണ്ടി ലെഡ്ജർ അക്കൌണ്ടുകൾ തയ്യാറാക്കുക ഓപ്പണിങ് ബാലൻസ് ക്യാഷ് ഡേറ്റർസ് ക്യാപിറ്റൽ എന്നിവ നൽകിയിരിക്കുന്നു കൂടാതെ ചില ലളിതമായ ഇടപാടുകൾ ക്രെഡിറ്റ് ക്യാഷ് സെയിൽസ് ക്രെഡിറ്റിൽ വിറ്റ സാധനങ്ങൾ ചെലവുകൾക്കായി പണമടച്ചുള്ള സാധനങ്ങൾ എന്നിവ വാങ്ങുന്നു കൂടാതെ ഡേറ്റർസിൽ നിന്ന് ലഭിച്ച തുക ക്രെഡിറ്റർസിന് കൊടുത്ത തുക ഇതും നൽകിയിരിക്കുന്നു ഈ കേസിന്റെ ഒരു പ്രിന്റൌട്ട് എടുത്ത് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ ശ്രമിക്കുക ഈ കേസ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾറാം ആൻഡ് കമ്പനിയുടെ പുസ്തകങ്ങളിൽ ലെഡ്ജർ ദൃശ്യമാകുന്നത് ഇങ്ങനെയാണ് ആദ്യം തയ്യാറാക്കിയ അക്കൌണ്ട് ഇതുപോലെയുള്ള ക്യാഷ് അക്കൌണ്ടാണ് ടു ബാലൻസ് ബ്രോട്ട് ഡൌൺ നിങ്ങൾ കാണുന്നത് പോലെ 1500 ആണ് അത് ഇവിടെ ഓപ്പണിങ് ബാലൻസ് ആയി കാണാം ഇത് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ ക്യാഷ് ഒരു അസറ്റ് ആണ് എന്ന് നമുക്കറിയാം അതിനാൽ ഒരു ഡെബിറ്റ് ബാലൻസ് ആണ് 1500 ഏപ്രിൽ 4 ന് 2400 ന്റെ പണമിടപാട് നടന്നു അതിനാൽ സാധനങ്ങൾ വിറ്റു പണവും ലഭിച്ചു അതിനാൽ ഇത് ലെഡ്ജറിലെ ഡെബിറ്റ് ഭാഗത്ത് പോകും ഏപ്രിൽ 15 ന് വീണ്ടും ഒരു പണമിടപാട് 250 രൂപയ്ക്ക് പണച്ചെലവുകൾ ഉണ്ട് അതിനാൽ നിങ്ങൾ പണം നൽകി പണം കുറയും അത് ഒരു ക്രെഡിറ്റ് ഇടപാടായി ദൃശ്യമാകും ഈ ഇടപാടുകൾ ഇവിടെ കാണാം ഓപ്പണിങ് ബാലൻസ് 1500 ഡെബിറ്റ് വശത്താണ് ഏപ്രിൽ 4 ന് 2400 ടു സെയിൽസ് ഏപ്രിൽ 15 ന് 250 ബൈ എക്സ്പെൻസെസ് തിരിച്ചു അവിടെത്തന്നെ അടുത്ത പണമിടപാട് 18 ഏപ്രിൽ കടക്കാരിൽ നിന്ന് ലഭിച്ച പണം 1200 ഏപ്രിൽ 22 ന് കടക്കാർക്ക് 800 പണമടച്ചു നിങ്ങൾക്ക് ഇവിടെ കാണാം കടക്കാരിൽ നിന്ന് ലഭിച്ച പണം ഡെബിറ്റ് ഭാഗത്ത് ദൃശ്യമാകും കാരണം പണം വന്നിരിക്കുന്നു അതുകൊണ്ട് ടു ഡേറ്റർസ് 1200 ബൈ ക്രെഡിറ്റർസ് 800 അതിനാൽ പണവുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏപ്രിൽ 30 ന് അവസാന ദിവസം നമ്മൾ ബാക്കി തുക കണക്കാക്കും അതിനാൽ നമ്മൾ ഇവിടെ ആകെ തുക ആയ 5100 എടുക്കുകയും ഈ രണ്ട് തുകകൾ കുറയ്ക്കുകയും ചെയ്താൽ നമുക്ക് 4050 ബാലൻസ് ലഭിക്കും അതായത് ഏപ്രിൽ 30 ന് മാസത്തിന്റെ അവസാനത്തിൽ കൈയിലുള്ള പണം 4050 ആണ് അതിനാൽ നിങ്ങൾക് മനസിലായി കാണും നമ്മൾ ഇടപാടുകൾ തരംതിരിക്കുകയും സംഗ്രഹിക്കുകയും ചെയ്തു നമുക് ഒരു റോ അക്കൌണ്ട് നൽകപ്പെട്ടു നാം ക്യാഷ് അക്കൌണ്ട് തയ്യാറാക്കാൻ വേണ്ടി പണവുമായി ബന്ധപ്പെട്ട ഇടപാടുകളെ മാത്രം തരംതിരിച്ചു ആദ്യം ഓപ്പണിങ് ബാലൻസ് തുടർന്ന് ക്യാഷ് സെയിൽസ് പിന്നെ പണച്ചെലവ് കടക്കാരനിൽ നിന്ന് ലഭിച്ച പണം കടക്കാരന് നൽകിയ പണം എന്നിവ ക്യാഷ് അക്കൌണ്ട് എന്നറിയപ്പെടുന്ന ലെഡ്ജർ അക്കൌ ണ്ടിൽ പണവുമായി ബന്ധപ്പെട്ട എൻട്രികൾ മാത്രമേ വരൂ ഓരോ അസറ്റിനും ഓരോ ബാധ്യതയ്ക്കും അല്ലെങ്കിൽ ഓരോ വരവിനും ചെലവിനും ഒരു പ്രത്യേക ലെഡ്ജർ അക്കൌണ്ട് സൃഷ്ടിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ക്യാഷ് അക്കൌണ്ടാണ് ബാക്കി തുക ഇവിടെ ക്യാരി ചെയ്യും അടുത്ത മാസം അതായത് മെയ് മാസം ടു ബാലൻസ് ബ്രോട്ട് ഡൌൺ എന്ന് കാണിക്കാം മെയ് മാസത്തെ ഇടപാടുകൾ അതിന്റെ താഴെ തുടങ്ങാം അതിനാൽ ഒരു പ്രത്യേക മാസത്തിന്റെ അവസാനത്തിൽ അക്കൌണ്ടുകൾ അടയ്ക്കുന്ന അക്കൌണ്ടിംഗ് കാലയളവ് ആശയം നിങ്ങൾക്ക് കാണാൻ കഴിയും ലഭിക്കുന്ന ബാലൻസ് മെയ് മാസത്തിലെ ഓപ്പണിങ് ബാലൻസ് ആകുന്നു ഇപ്പോൾ സമാനമായി പർച്ചേസ് അക്കൌണ്ട് തയ്യാറാക്കിയിട്ടുണ്ട് പർച്ചേസ് അക്കൌണ്ട് ഒരു എൻട്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ 3000 രൂപയ്ക്ക് ഒരു ക്യാഷ് പർച്ചേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്രയും തുക ബാലൻസ് ആണ് സെയിൽസ് സെയിൽസ് ക്രെഡിറ്റ് ഭാഗത്താണ് രണ്ട് സെയിൽസ് ഉണ്ടായിരുന്നു ഒന്ന് ക്യാഷ് സെയിൽസ് മറ്റൊന്ന് ക്രെഡിറ്റ് സെയിൽസ് ഇതാണ് മാസത്തിലെ മൊത്തം സെയിൽസ് ബാലൻസ് ബ്രോട്ട് ഡൌൺ 3650 അടുത്തത് കടക്കാർ ഡെറ്റോർസ് ഡെറ്റോർസ് എന്നാൽ കസ്റ്റമർ ബാലൻസ് അല്ലെങ്കിൽകസ്റ്റമെറില് നിന്നും കിട്ടാനുള്ള റീസിവബിൾസ് ഇതിൽ ഒരു ഇടപാട് മാത്രമേ ഉള്ളു ഏപ്രിൽ 7 ന് ക്യാഷ് ഇടപാട് 1250 ബാക്കി 1250 ആണ് അതിനാൽ ശ്രദ്ധാപൂർവ്വം നോക്കിയാൽ നിങ്ങൾക്കു മനസിലാകും ഓപ്പണിങ് ബാലൻസ് ആയ 1200 ലഭിക്കുന്നത് 18 ഏപ്രിൽ ആണ് പുതിയ സെയിൽസ് തുക ആയ 1250 മെയ് ഒന്ന് വരെയും ലഭിച്ചിട്ടില്ല ഒരു പക്ഷേ ക്രെഡിറ്റ് പീരീഡ് ഒരു മാസം ആയിരിക്കും അങ്ങനെ കഴിഞ്ഞ മാസത്തെ ബാലൻസ് ഈ മാസത്തെ ഓപ്പണിങ് ബാലൻസ് ആയി കണക്കാക്കുന്നു അടുത്തത് ക്രെഡിറ്റർസ് ആകെ ഒരു ക്രെഡിറ്റ് പർച്ചേസ് മാത്രമേ നടന്നിട്ടുള്ളു ഏപ്രിൽ 2 ന് 3000 ബാക്കി തുക ഇപ്പോഴും ശേഷിക്കുന്നു ഏപ്രിൽ 22 ന് 800 ന്റെ ഓപ്പണിംഗ് ബാലൻസ് ഇതിനകം അടച്ചിട്ടുണ്ട് ഇത് വളരെ ചെറിയ ഇടപാടുകൾ ഉള്ള ഒരു ചെറിയ കമ്പനിയാണ് എന്നാൽ ഒരു വലിയ കമ്പനിക്ക് പോലും ഒരു പ്രത്യേക അക്കൌണ്ട് എങ്ങനെ തയ്യാറാക്കാമെന്നതിനെക്കുറിച്ച് ഇത് നിങ്ങൾക്ക് ഒരു ആശയം നൽകും ഇനി എക്സ്പെൻസ് അക്കൌണ്ട് ആണ് ഒരു എൻട്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ 250 രൂപ ചെലവുകളുടെ ഒരു ബാലൻസ് ആണ് ക്യാപിറ്റൽ അക്കൌണ്ടിൽ എൻട്രി നടത്താറില്ല സാധാരണയായി എല്ലാ മാസവും മൂലധനം മാറില്ല അതിനാൽ 1900 ന്റെ ഓപ്പണിംഗ് ബാലൻസ് ക്ലോസിംഗ് ബാലൻസായി കണക്കാക്കുന്നു ഇപ്പോൾ സബ്സിഡിയറി ബുക്കുകൾ എന്നറിയപ്പെടുന്ന ഒരു വിഷയം കൂടി ഉണ്ട് നമ്മൾ കണ്ടു ജേണൽ എൻട്രികൾ പാസായതിനുശേഷം ലെഡ്ജർ അകൌണ്ടുകൾ തയ്യാറാക്കുന്നു പക്ഷേ സംഭവിക്കുന്നത് മിക്ക ബിസിനസുകളിലും സമാനമായ വാങ്ങൽ വിൽപന പണം എൻട്രികൾ വലിയ സംഖ്യകളിൽ വരുന്നു അതിനാൽ ഓരോ തവണയും ജേണൽ എൻട്രി ഉണ്ടാക്കുന്നതിൽ അർത്ഥമില്ല അതിനുപകരം നമ്മൾ ഒരു രജിസ്റ്റർ തയ്യാറാക്കുകയും എല്ലാ വാങ്ങലുകളും ഒരു രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയും ചെയ്യും അത് പോലെ ഒരു രജിസ്റ്ററിൽ എല്ലാ വിൽപ്പനകളും എല്ലാ പണമിടപാടുകളും ക്യാഷ് ബുക്ക് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു കാഷ്യർ പണമിടപാടുകൾ മാത്രം രേഖപ്പെടുത്തും അതിനാൽ സബ്സിഡിയറി പുസ്തകങ്ങളിൽ സമാനമായ ഒരു ഇടപാടിന് ഒരു ജേണൽ ഉണ്ടായിരിക്കുന്നതിനുപകരം സബ്സിഡിയറി ബുക്കുകൾ എന്ന് വിളിക്കപ്പെടുന്ന പുസ്തകങ്ങളൾ തയ്യാറാക്കപ്പെടുന്നു ഇവ ഒറിജിനൽ എൻട്രിയുടെ പുസ്തകങ്ങളാണ് അവിടെ നിന്ന് ഇടപാടുകൾ ലെഡ്ജറിലേക്ക് മാറ്റുന്നു ഈ നടപടിക്രമം വളരെ എളുപ്പമാണ് പണ്ട് കാലങ്ങളിൽ പുസ്തകങ്ങയിൽ ഇവ രേഖപ്പെടുത്തുന്നത് കൊണ്ട് കുറെ അധികം പുസ്തകങ്ങൾ വേണ്ടി വന്നിരുന്നു സെയിൽസ് ഡിപ്പോയിൽ സെയിൽസ് ബുക്ക് ഉണ്ടാകും കാഷ്യറുടെ കയ്യിൽ ക്യാഷ് ബുക്ക് ഉണ്ടായിരിക്കും ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടർ സിസ്റ്റമാണ് ചെയ്യുന്നത് പക്ഷേ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പോലും അനുബന്ധ പുസ്തകങ്ങൾ പരിപാലിക്കപ്പെടുന്നു മാത്രമല്ല ചില ഇടപാടുകൾ നടത്താനുള്ള അധികാരം ചില ആളുകൾക്ക് മാത്രം ഉണ്ടാകും പണമിടപാടുകൾക്കുമുള്ള ക്യാഷ് ബുക്ക് വാങ്ങലുകൾക്കുള്ള പർച്ചേസ് ബുക്ക് ക്രെഡിറ്റ് വിൽപ്പനയ്ക്കുള്ള സെയിൽസ് പുസ്തകം പർച്ചേസ് റിട്ടേൺ ബുക്കുകൾ സെയിൽസ് റിട്ടേൺ ബുക്ക് പ്രോമിസറി നോട്ടുകളുടെ ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിനുള്ള ബിൽസ് റീസിവബിൾ പുസ്തകം എന്നിവയാണ് സാധാരണ സബ്സിഡിയറി പുസ്തകങ്ങൾ ഇപ്പോൾ സമാനമായ എല്ലാ ഇടപാടുകളും സെയിൽസ് പർച്ചേസ് ക്യാഷ് ബുക്ക് തുടങ്ങിയവയിൽ പോകും എന്നാൽ ഏതെങ്കിലും അനുബന്ധ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്താത്ത ഇടപാടുകൾ ജേർണൽ പ്രോപ്പറിൽ രേഖപ്പെടുത്തുക തെറ്റുകൾ തിരുത്താനുണ്ടെങ്കിൽ അവയും ജേർണൽ പ്രോപ്പറിൽ രേഖപ്പെടുത്തുക അതിനാൽ ജേണൽ ലെഡ്ജർ സബ്സിഡിയറി പുസ്തകങ്ങൾ എന്നിവ പോലുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങളുടെ ഒരു ഹ്രസ്വ സംഗ്രഹമായിരുന്നു ഇത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ വിഷയത്തിൽ കൂടുതൽ താല്പര്യമുള്ളവർക്ക് ഒരുപക്ഷേ അക്കൌണ്ടിംഗ് പുസ്തകങ്ങളിൽ നോക്കാം ഇപ്പോൾ നമ്മൾ ഈ ചർച്ച തുടരുകയും വളരെ ലളിതമായ ഒരു കേസ് എടുത്ത് ട്രയൽ ബാലൻസിൽ നിന്ന് പി എൽ ബാലൻസ് ഷീറ്റ് എന്നിവ തയ്യാറാക്കുകയും ചെയ്യും ഇപ്പോൾ ആദ്യം നമ്മൾ ക്യാഷ് സിസ്റ്റത്തെക്കുറിച്ചും മെർക്കന്റൈൽ സിസ്റ്റത്തെക്കുറിച്ചും ചർച്ച ചെയ്യും അക്യുറൽ കൺസെപ്റ്റ് എന്ന ആശയത്തെക്കുറിച്ച് നമ്മൾ ഇതിനകം ചർച്ചചെയ്തു ക്യാഷ് സിസ്റ്റത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നാൽ പണവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ മാത്രമേ രേഖപ്പെടുത്തൂ അതിനാൽ നമുക്കു ഒരു ചെറുകിട കടയുടമയെ നോക്കാം വിൽപ്പന നടക്കുമ്പോഴെല്ലാം അത് ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ ആയി രേഖപ്പെടുത്തുന്നു പര്ചെസസ് എല്ലാം ക്യാഷ് പർച്ചേസ് ആയി രേഖപെടുത്തുന്നു ഏതെങ്കിലും വിൽപ്പന ക്രെഡിറ്റിൽ നടത്തിയതാണെന്ന് കരുതുക അത് ഒരു പ്രത്യേക ഡയറിയിൽ രേഖപ്പെടുത്തും എന്നാൽ പണം ലഭിക്കുമ്പോൾ മാത്രമേ വിൽപ്പന രേഖപ്പെടുത്തുകയുള്ളൂവെങ്കിൽ ഇതിനെ ഒരു ക്യാഷ് സിസ്റ്റം ഓഫ് അക്കൌണ്ടിംഗ് എന്ന് വിളിക്കുന്നു പണ്ട് സർക്കാർ സംവിധാനം കൂടുതലും പണ അടിസ്ഥാനത്തിലായിരുന്നു ഉദാഹരണത്തിനു ഡിസംബർ മാസത്തെ ശമ്പളം ജനുവരി 5 ന് നൽകപ്പെട്ടുവെന്ന് കരുതുക തുടർന്ന് ക്യാഷ് സിസ്റ്റത്തിൽ ഇത് ജനുവരിയിൽ രേഖപ്പെടുത്തുന്നു കാരണം ഡിസംബറിലെ ചെലവാണെങ്കിലും പണം അടച്ചത് ജനുവരിയിൽ ആണ് അതിനാൽ അത് ജനുവരിയിൽ രേഖപെടുത്തുന്നു ഇതിനെ ഒരു ക്യാഷ് സിസ്റ്റം എന്ന് വിളിക്കുന്നു ഇപ്പോൾ പൊതു പണ സമ്പ്രദായത്തിൽ ധാരാളം വിടവുകൾ ഉണ്ട് അതിനാൽ നമുക് ഒരു മെർക്കന്റൈൽ സിസ്റ്റം ആവശ്യമാണ് അവിടെ പണം ലഭിച്ചതോ അല്ലാതെയോ പരിഗണിക്കാതെ എല്ലാ എൻട്രികളും നിർമ്മിക്കപ്പെടുന്നു ഒരു പ്രത്യേക ഇടപാട് നടക്കുമ്പോൾ അത് റെക്കോർഡുചെയ്യേണ്ടതുണ്ട് അതിനുശേഷം അതിന്റെ പേയ്മെന്റ് അല്ലെങ്കിൽ രസീത് റെക്കോർഡുചെയ്യേണ്ടതുണ്ട് സെയിൽസ് പർച്ചേസ് എക്സ്പെൻസ് എന്നിവയെ കുറിച്ച് ഒരു ധാരണയിലെത്തി കരാറിൽ ഏർപ്പെടുമ്പോൾ ആണ് ഇടപാട് ആകുന്നത് അത് റെക്കോർഡുചെയ്യേണ്ടതുണ്ട് ഇതിനെ ഒരു ആക്യുവൽ സിസ്റ്റം എന്നും വിളിക്കുന്നു അക്യുറൽ കൺസെപ്റ്റ് ഉപയോഗിക്കുന്ന അക്കൌണ്ടിംഗ് സിസ്റ്റത്തെ ഒരു മെർകന്റൈൽ സിസ്റ്റം എന്ന് വിളിക്കുന്നു ക്യാഷ് അടിസ്ഥാനത്തിൽ ഉള്ള അക്കൌണ്ടിംഗ് സിസ്റ്റത്തിൽ ധാരാളം വിടവുകൾ ഉണ്ട് അതിനാലാണ് മിക്ക ബിസിനസ്സുകളും അവരുടെ അക്കൌണ്ടിംഗ് സിസ്റ്റത്തെ മെർക്കന്റൈൽ സിസ്റ്റമാക്കി മാറ്റിയത് വളരെ ചെറിയ ബിസിനസുകൾ ഒഴികെ ആരും ഇപ്പോൾ ക്യാഷ് സിസ്റ്റം ഉപയോഗിക്കാറില്ല ഇപ്പോൾ ഒരു ചെറിയ കേസിലേക്ക് പോകാം അവിടെ ഒരു ചെറിയ പി എൽ ബാലൻസ് ഷീറ്റ് എങ്ങനെ നിർമ്മിക്കാമെന്നു നമുക്ക് മനസിലാക്കാം ഇത് ഒരു കമ്പനിയുടേതല്ല അതിനാൽ ഒരു പ്രത്യേക ഫോർമാറ്റിൽ അല്ല എന്നാൽ ട്രയൽ ബാലൻസിൽ നിന്ന് പി എൽ ബാലൻസ് ഷീറ്റ് എന്നിവ എങ്ങനെ നിർമ്മിക്കാം എന്ന് മനസിലാക്കാൻ സഹായിക്കും ആദ്യം ട്രയൽ ബാലൻസ് എന്നാൽ എന്താണ് ഒരു ലെഡ്ജർ എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തു ലെഡ്ജറിൽ വിവിധ അക്കൌണ്ടുകളുണ്ട് കാലയളവ് അവസാനിക്കുമ്പോൾ ഓരോ അക്കൌണ്ടിനും ബാലൻസ് കണക്കാക്കുന്നു ഈ ബാലൻസുകൾ ട്രയൽ ബാലൻസ് എന്ന് വിളിക്കുന്ന ഒരു ലിസ്റ്റിൽ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ട്രയൽ ബാലൻസിന് ധാരാളം ഗുണങ്ങളുണ്ട് കാരണം ഇത് എല്ലാ അക്കൌണ്ടുകളുടെയും ലിസ്റ്റ് നമുക്ക് നൽകുന്നു തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു ലെഡ്ജറിൽ എന്തെങ്കിലും പിശകുകൾ ഉണ്ടെങ്കിൽ ട്രയൽ ബാലൻസ് തുല്യമാകില്ല അതിനാൽ ഡെബിറ്റിന്റെ ആകെ തുക ഒരു ട്രയൽ ബാലൻസിലെ ക്രെഡിറ്റുമായി പൊരുത്തപ്പെടണം എന്നാൽ ഇവിടെയും ചില പിശകുകൾ ഉണ്ടാകാം എന്നാൽ നിരവധി പിശകുകൾ കണ്ടെത്തുന്നതിൽ ട്രയൽ ബാലൻസ് നമ്മെ സഹായിക്കുന്നു ഇപ്പോൾ ഒരു ചെറിയ ട്രയൽ ബാലൻസ് നൽകിയിരിക്കുന്നു ഇത് ഉപയോഗിച്ച് പി എൽ അക്കൌണ്ടും ബാലൻസ് ഷീറ്റും നിർമിക്കണം ഇത് കമ്പനി ഫോർമാറ്റിൽ അല്ല നിങ്ങൾക്ക് ഏത് ഫോർമാറ്റും ഉപയോഗിക്കാം പക്ഷേ ഒരു പി എൽ ബാലൻസ് ഷീറ്റ് എന്നിവ നിർമ്മിക്കാൻ ശ്രമിക്കുക ആദ്യം ട്രയൽ ബാലൻസിന്റെ ഇനങ്ങൾ വായിക്കുക ഒരു പ്രത്യേക ഇനം പി എൽ ഇനമാണോ ബാലൻസ് ഷീറ്റ് ഇനമാണോ എന്ന് അടയാളപ്പെടുത്തി പി എൽ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോകുക നിങ്ങൾ പ്രിന്റൌട്ട് എടുത്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇല്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ നിറുത്തി നിങ്ങൾ പ്രിന്റൌട്ട് എടുത്തതിനു ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് പോകുക അവയിൽ ചിലത് ചർച്ച ചെയ്യാം ആദ്യം ക്യാഷ് ആണ് ക്യാഷ് എന്ത് ആണ് അത് ഒരു അസറ്റ് ആണ് അതുകൊണ്ട് അത് അസറ്റിനു കീഴിൽ ആണ് ട്രേഡ് ഡേറ്റർസ് വീണ്ടും ബാലൻസ് ഷീറ്റിൽ അസറ്റ് വാടക പി എൽ എക്സ്പെൻസ് ശമ്പളം പി എൽ എക്സ്പെൻസ് ട്രേഡ് ക്രെഡിറ്റർസ് ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി ഇൻഷുറൻസ് പി എൽ എക്സ്പെൻസ് ട്രയൽ ബാലൻസിലെ മറ്റെല്ലാ ഇനങ്ങളും അതേ രീതിയിൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക ഇത് വളരെ ലളിതമാണ് ഓപ്പണിങ് സ്റ്റോക്ക് പി എൽ എക്സ്പെൻസ് ആയി കണക്കാക്കുന്നു നിങ്ങൾ ഇത് പൂർത്തിയാക്കുക അതിനു ശേഷം ഞാൻ ഇതിന്റെ ഉത്തരം കാണിക്കാം പി എൽ അക്കൌണ്ട് രണ്ട് ഭാഗങ്ങളായി നിർമ്മിക്കേണ്ടതുണ്ട് ആദ്യ ഭാഗം ട്രേഡിംഗ്അക്കൌണ്ട് എന്നറിയപ്പെടുന്നു അതിനാൽ നമ്മൾ സെയിൽസ് ഓപ്പണിംഗ് സ്റ്റോക്ക്പർചേസ്സ് ഒക്കെ റെക്കോഡ് ചെയ്തു ബാലൻസ് ഗ്രോസ് പ്രോഫിറ്റ് 65000 ആണ് ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ചേർക്കാം അതിനുശേഷം മറ്റെല്ലാ ചെലവുകളുടെയും ഒരു ലിസ്റ്റിംഗ് ഉണ്ട് മൊത്ത ലാഭം 65000 ആണ് നിങ്ങൾ എല്ലാ ചെലവുകളും ലിസ്റ്റു ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് 30300 അറ്റ ലാഭം ലഭിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇത് ഒരു കമ്പനിയുടെ അല്ലാത്തതിനാൽ ഇത് ഒരു പ്രത്യേക ഫോർമാറ്റിലല്ല പക്ഷേ ലളിതമായ പി എൽ എന്നിവ എങ്ങനെ നിർമ്മിക്കാമെന്ന് മനസിലാക്കാൻ ഇത് സഹായിക്കും അടുത്തത് നമുക് ബാലൻസ് ഷീറ്റിലേക്ക് പോകാം നിങ്ങൾക്കറിയാവുന്നത് പോലെ ബാലൻസ് ഷീറ്റിന് രണ്ട് വശങ്ങൾ ഉണ്ട് അസ്സെറ്സ് ലയബിലിറ്റീസ് അസറ്റ് വശത്ത് ഞങ്ങൾ മോട്ടോർ വാഹനം യന്ത്രങ്ങൾ ഡെറ്റോർസ് പണം മൂലധനം ട്രേഡ് ക്രെഡിറ്റർസ് എന്നിവ രേഖപ്പെടുത്തിയിട്ടുണ്ട് പി എൽ നിന്നുള്ള അറ്റ ലാഭം 30300 ബാലൻസ് ഷീറ്റിൽ കൊണ്ടുവരേണ്ടത് ഉണ്ട് ലാഭം ഉടമസ്ഥരുടെ ഫണ്ടുകളെ പ്രതിനിധീകരിക്കുന്നുവെന്ന് ഞങ്ങൾ ഇതിനകം ചർച്ചചെയ്തിട്ടുണ്ട് ഈ തുക ഉടമസ്ഥരുടേതാണ് അതിനാലാണ് ഇത് മൂലധനത്തിന് താഴെ കാണിക്കുന്നത് ഒരു തുടക്കം എങ്ങനെ തയ്യാറാക്കാമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു ലളിതമായ പി എൽ ബാലൻസ് ഷീറ്റ് നമ്മൾ മനസിലാക്കി വരുന്ന സെഷനുകളിൽ കമ്പനികളുടെ ബാലൻസ് ഷീറ്റുകളിൽ നിന്ന് യഥാർത്ഥ ഡാറ്റ എടുക്കുന്ന വിവിധ തരം കമ്പനികൾക്കായി പി എൽ ബാലൻസ് ഷീറ്റ് എന്നിവ നിർമ്മിക്കാൻ പോകുന്നു ട്രയൽ ബാലൻസിൽ നിന്ന് ലളിതമായ പി എൽ ബാലൻസ് ഷീറ്റ് എങ്ങനെ നിർമ്മിക്കാമെന്ന് മനസിലാക്കാൻ ഇത് അടിസ്ഥാനപരമായി ഒരു ആരംഭ പോയിന്റായിരുന്നു ഇത് നിങ്ങൾക്ക് വ്യക്തമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ ഞങ്ങൾ ഇവിടെ നിർത്തുന്നു നമസ്തേ